ഹലോ എവെരിവൺ ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ഞാൻ ഡിസാസ്റ്റർ പ്രീപയേർഡ്നെസിലും ഡിസാസ്റ്റർ റിക്കവറിയിലും വിവരങ്ങളുടെ പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ ഈ പരമ്പര ഈ പ്രഭാഷണം തുടർച്ചയായ രണ്ട് പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും അതിനാൽ ദയവായി കാത്തിരിക്കുക ഇതിന് ശേഷമുള്ള മറ്റ് രണ്ട് പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുക ഓക്കേ അതിനാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദുരന്ത നിവാരണത്തിലേക്ക് നയിക്കുന്ന ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുക എന്നതാണ് ആളുകൾക്ക് ഇത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ വ്യക്തികളുടെ വിവരങ്ങളുടെ ഉറവിടം അവർക്ക് എവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കും അതിനാൽ ഇതാണ് ബംഗ്ലാദേശ് ഞാൻ ആദ്യം പ്രശ്നം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ബംഗ്ലാദേശിലെ ഒരു ചെറിയ പ്രശ്നവും അവർക്ക് എന്തുകൊണ്ട് ദുരന്തനിവാരണ തയ്യാറെടുപ്പ് ആവശ്യമാണ് എത്രത്തോളം ഏത് സന്ദർഭത്തിൽ അതിനാൽ ഇത് ബംഗ്ലാദേശാണ് ഇന്ത്യയാൽ ചുറ്റപ്പെട്ട ധാരാളം പച്ചപ്പുള്ള മനോഹരമായ രാജ്യമാണിത് ഭൂരിഭാഗവും മൂന്ന് വശവും ഇന്ത്യയാൽ ചുറ്റപ്പെട്ട ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് മാത്രമല്ല ഇത് മനോഹരമായ രാജ്യമാണ് പക്ഷേ ഈ മനോഹരമായ രാജ്യം പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ അവർ കുടിവെള്ള അപകടസാധ്യതയ്ക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപകട തരത്തിലുള്ള ദുരന്തത്തിനും ഗുരുതരമായ ഭീഷണിയിലാണ് അതിനാൽ അവർ വളരെ ദശലക്ഷക്കണക്കിന് ആളുകളെ അഭിമുഖീകരിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ പോരാടുന്നു ഇത് വളരെ ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമാണ് ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലൊന്നാണ് അവിടെ ജനസംഖ്യ ഇതിനകം 20 കോടിക്ക് അടുത്താണ് അതിനാൽ നമുക്ക് നോക്കാം ഈ പ്രദേശം അവർ രണ്ട് വലിയ സ്ലോ പോയ്സൺ എൻവയോണ്മെന്റലും ഡിസാസ്റ്റർ റിസ്ക്കും അനുഭവിക്കുന്നു ഇത് സ്ലോ പോയ്സനാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല 5 വർഷമോ 10 വർഷമോ മുമ്പ് വരെ ഇവിടെ എന്താണ് പ്രശ്നം ഭൂഗർഭജലത്തിലെ ആഴ്സനിക് മലിനീകരണം ഭൂഗർഭജലത്തിലെ ആഴ്സനിക് മലിനീകരണം കാരണം നിങ്ങൾക്ക് ഭൂഗർഭജലം കുടിക്കാൻ കഴിയില്ല കാരണം അത് ആഴ്സനിക് മലിനമായതിനാൽ നിങ്ങൾക്ക് ഉപരിതല ജലം കുടിക്കാൻ കഴിയില്ല കാരണം ഇത് ലവണാംശം ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചാൽ ഉപ്പുരസമാണ് നിങ്ങൾക്ക് അതിസാരം വയറിളക്കം dysentery diarrhoea മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും 1971ലെ സ്വാതന്ത്ര്യാനന്തരം 1980 കളിൽ പാകിസ്താൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 1980 കളുടെ തുടക്കത്തിൽ അക്കാലത്ത് ആളുകൾ നദി കുളങ്ങൾ കനാൽ തടാകങ്ങൾ തുടങ്ങിയ ഉപരിതല ജലത്തെ ആശ്രയിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട് കൂടാതെ ഈ ഉപരിതല ജലവും മധുരമുള്ള വെള്ളവും മനുഷ്യരും അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ യുനെസ്കോയും ജപ്പാൻ സർക്കാരുമായി സഹകരിച്ച് ഉപരിതല ജലം കുടിവെള്ളമായി പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ തുടങ്ങി ഇത് ജലജന്യ രോഗങ്ങളായ അതിസാരം വയറിളക്കം മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതായി അവർ പറഞ്ഞു അതിനാൽ യുനെസ്കോയുടെയും മറ്റ് ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ ജലജന്യരോഗങ്ങൾ ഈ പ്രദേശത്ത് വളരെ വലുതായിരുന്നുവെന്ന് പറയുന്നതനുസരിച്ച് ആളുകൾ കുളങ്ങളിൽ നിന്നും തടാകങ്ങളിൽ നിന്നുമുള്ള ഉപരിതല ജലം കുടിക്കുന്നതിനാൽ അവിടെ മരണനിരക്ക് വർദ്ധിച്ചു അപ്പോൾ അവർ എന്താണ് ചെയ്തത് അവർ യുനെസ്കോയുമായി സഹകരിച്ച് തുടങ്ങി ബംഗ്ലാദേശ് സർക്കാർ ഈ കുഴൽക്കിണറുകൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഹാൻഡ് പമ്പുകൾ ഒരുതരം കുഴൽക്കിണർ കാണാം ശരി ഈ കുഴൽക്കിണറുകൾ വളരെ ആഴമുള്ളതല്ല 15 20 മീറ്റർ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ വെള്ളം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അവർ കുഴൽക്കിണർ വെള്ളത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അത് വിലകുറഞ്ഞതും നിങ്ങൾക്ക് ഭൂഗർഭജലത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ആളുകൾ കുഴൽക്കിണറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി 10 15 വർഷത്തിനു ശേഷം 1990 കളിൽ കുഴൽക്കിണറിന്റെ പ്രോത്സാഹനത്തിന് ശേഷം ബംഗ്ലാദേശിലെ ഗ്രാമീണ ജനസംഖ്യയുടെ ഏതാണ്ട് 80 പേർക്കും കുഴൽക്കിണറുകളിൽ നിന്ന് കുടിവെള്ളം ലഭിച്ചു അവർ കുളങ്ങളിൽ നിന്നും നദികളിൽ നിന്നുമുള്ള ഉപരിതല ജലത്തെ ആശ്രയിച്ചു പിന്നീട് അവർ ഉപരിതലത്തിൽ നിന്ന് കുഴൽക്കിണറിലേക്ക് നീങ്ങാൻ തുടങ്ങി കുഴൽ കിണർ വെള്ളം അല്ലെങ്കിൽ കൈ പമ്പുകൾ ഇപ്പോൾ 80 ആളുകളും ഇത് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ വീണ്ടും മറ്റൊരു ദുരന്തത്തിന് വിധേയരായിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി ആഴ്സനിക് മലിനീകരണം അതിനാൽ നിങ്ങൾ ആർസെനിക് മലിനീകരണം കുടിക്കുകയാണെങ്കിൽ മലിനമായ വെള്ളം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ഇത് നിങ്ങളെ ക്യാൻസറിന് പോലും ഇരയാക്കും അതിനാൽ ഉപരിതല ജലം മലിനമായതിനാൽ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് എന്നാൽ അടുത്തിടെ ഇത് ജലത്തിന്റെ ലവണാംശം മൂലം കൂടുതൽ മലിനമായിരിക്കുന്നു അത് സമുദ്രനിരപ്പ് വർദ്ധന കാലാവസ്ഥാ വ്യതിയാനം കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചെമ്മീൻ കൃഷി മൂലമുള്ള ചില മാറ്റങ്ങളും ആകാം അവർ സമുദ്രജലത്തെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കും ഉയർന്ന പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നു തൽഫലമായി ഈ പ്രദേശങ്ങളും ജലം ലവണാംശത്താൽ മലിനമായതിനാൽ കുടിവെള്ളം പ്രതിസന്ധിയിലാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഉപരിതല ജലം കുടിക്കാൻ കഴിയില്ല കാരണം ഈ വെള്ളം ഭൂഗർഭജലം ആഴ്സനിക് കാരണം ലവണാംശമുള്ളതാണ് ഇപ്പോൾ പരിസ്ഥിതി വനം മന്ത്രാലയം 20 ദശലക്ഷം ആളുകൾക്ക് അവരുടെ കുടിവെള്ളത്തിലെ ലവണാംശത്തിന്റെ അളവ് ശരിയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്റഗ്രേറ്റഡ് റീജിയണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് 2007 റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 5 പതിറ്റാണ്ടിനുള്ളിൽ ലവണാംശം കയറുന്നത് 45 വർദ്ധിച്ചു 45 ഇത് 1973ലും 1997ലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിലെ ജല ലവണാംശം വെള്ളത്തിൽ ലവണാംശം കയറുന്നത് ശരിയാണോ അതിനാൽ ഈ ചുവന്ന പ്രദേശങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ലവണജലമുള്ള പ്രദേശങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ1970 കളുടെ അവസാനത്തിലോ 1980 കളുടെ തുടക്കത്തിലോ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന്റെ United Nations Childrens Fund UNICEF പിന്തുണയോടെ ബംഗ്ലാദേശ് ഗവൺമെന്റ് ആഴം കുറഞ്ഞ കുഴൽക്കിണർ സ്ഥാപിക്കുന്ന ഒരു ബഹുജന പദ്ധതിക്ക് തുടക്കമിട്ടു ചുരുക്കത്തിൽ STWs കുടിവെള്ളത്തിന്റെ ഉപരിതല ജലം മലിനമായതിനാൽ വയറിളക്കം കോളറ diarrhoea cholera തുടങ്ങിയ ജലജന്യ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ കുടിവെള്ളം നൽകുന്നതിന് വേണ്ടിയാണ് ഓക്കേ ഇപ്പോൾ 80 ബംഗ്ലാദേശി ജനസംഖ്യ കുടിവെള്ളത്തിനായി കുഴൽക്കിണറിനെ ആശ്രയിക്കുന്നു ശരി ഇപ്പോൾ ജല ആർസെനിക് മലിനീകരണം അവരെ ബാധിക്കുന്നു ബംഗ്ലാദേശിലെ 1 2 ദശലക്ഷം ആളുകൾ ഇതിനകം തന്നെ ആർസെനിക്കിന്റെ തിരിച്ചറിയാവുന്ന ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആർസെനിക് കലർന്ന വെള്ളം കുടിക്കുന്നതിനാൽ 30 മുതൽ 40 ദശലക്ഷം ആളുകൾ പരോക്ഷമായോ നേരിട്ടോ അപകടത്തിലാണ് ഇത് ഒരു ചെറിയ സംഖ്യയല്ല 30 മുതൽ 40 ദശലക്ഷം ജനസംഖ്യ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് വെള്ളം കാണാം പക്ഷേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല ധാരാളം വെള്ളമുണ്ട് തീരപ്രദേശമായതിനാൽ അവർക്ക് ജലക്ഷാമം ഇല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും വെള്ളം കാണാം നിങ്ങൾക്ക് വെള്ളം കാണാം പക്ഷേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല ഉപരിതല ജലമോ ഭൂഗർഭജലമോ ഇല്ല എന്താണ് സ്ഥിതി ചിലർ കമ്മ്യൂണിറ്റി തലത്തിലുള്ള ജലവിതരണ കുളങ്ങളും ഫിൽട്ടർ സംവിധാനവും കൊണ്ടുവന്നു നിങ്ങൾ കുളത്തിലെ വെള്ളം ശേഖരിക്കുന്നത് പോലെയാണ് പിന്നീട് ഒരുതരം ഫിൽട്ടറിംഗ് മണൽ ഫിൽട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് സമാഹരിച്ച് പിന്നീട് വരുന്നു അത് സംയോജിപ്പിച്ച് വൃത്തിയാക്കിയ വെള്ളത്തിലേക്ക് വരുന്നു പക്ഷേ ധാരാളം അറ്റകുറ്റപ്പണി പ്രശ്നങ്ങൾ ഉണ്ട് അത് പ്രവർത്തിക്കുന്നില്ല ശരി അതിനെ PSF എന്ന് വിളിക്കുന്നു പോണ്ട് സാൻഡ് ഫിൽട്ടർ എന്നാൽ കുടിവെള്ളം നൽകുന്നതിന് ഇത് ശരിക്കും പ്രവർത്തിക്കുന്നില്ലെന്ന് ആളുകൾ കണ്ടെത്തുന്നു ആളുകൾക്ക് വാട്ടർ ഫിൽട്ടർ നൽകുന്നതിന് മറ്റൊരു പരിഹാരമുണ്ട് ഇത് മികച്ച വെള്ളം നൽകാൻ ഒരു പരിധിവരെ മോശമാകില്ല ശാസ്ത്രജ്ഞർക്ക് ഇത് ശരിക്കും കഴിയുമെന്ന് ഉറപ്പില്ല ആഴ്സനിക് കുറയ്ക്കുക ആർസെനിക് ഇല്ലാതാക്കുക പക്ഷേ ഇപ്പോഴും അത് വളരെ മോശമല്ല പക്ഷേ അവ താങ്ങാനാവുന്നതാണോ തീരദേശ ബംഗ്ലാദേശിലെ ജനങ്ങൾ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളിൽ ഒരാളാണ് അവർ ശരിക്കും ശരിക്കും ശരിക്കും ദരിദ്രരാണ് ജനസംഖ്യയുടെ ഒരു വലിയ സംഖ്യ വളരെ ദരിദ്രരാണ് ഈ ഫിൽട്ടറുകൾ അവർക്ക് താങ്ങാനാകുമോ ഇതൊരു ചോദ്യമാണ് വലിയ ചോദ്യം ശരിയാണ് അതിനാൽ ഈ ഭാഗത്ത് ബദൽ കുടിവെള്ളം വേണമെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഈ ബദൽ കുടിവെള്ളം ലഭിക്കാൻ ആളുകൾക്ക് വലിയ പ്രോത്സാഹനമോ പ്രചോദനമോ ഇല്ലെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി അതുകൊണ്ട് പല കാരണങ്ങളുണ്ട് ആളുകൾക്ക് ഒരു ശീലവും മനോഭാവവും ഒരുതരം പ്രശ്നമുണ്ട് ആളുകൾ കുടിക്കുന്നത് ഇത് ശീലമാക്കി അവർ ഇല്ല എന്ന് പറയും എന്റെ പൂർവ്വികർ എന്റെ മുത്തച്ഛൻ എന്റെ വലിയ മുത്തച്ഛൻ എല്ലാവരും അവർ ഇവിടെ താമസിക്കുന്നു അവർ ഒരേ വെള്ളം കുടിക്കുന്നു അവർക്ക് ഒരു പ്രശ്നവുമില്ല അവർ 70 വർഷവും 80 വർഷവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു ഞാൻ എന്തിന് വിഷമിക്കണം എനിക്ക് ഇത് ശീലമാണ് ഞാൻ പ്രതിരോധിക്കും അതിനാൽ എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട ഇത് ഒരു കാഴ്ചപ്പാടാണ് മറ്റൊരു വീക്ഷണം സമാനമായ ഒരു കാഴ്ചപ്പാടാണ് ആളുകൾ പറയുന്നത് അവർക്ക് അവബോധമില്ലായ്മയുണ്ടെന്നാണ് ഒരുപക്ഷേ അവർക്കറിയില്ല അവർ അത് ഉപയോഗിച്ചു ഈ ദുരന്തത്തിന്റെ ഗൌരവവും തീവ്രതയും അപകടസാധ്യതയും അവർ തിരിച്ചറിയുന്നില്ല മറ്റൊന്ന് നിലവിലുള്ള ദാരിദ്ര്യം ആളുകൾ ശരിക്കും ദരിദ്രരാണ് അവർക്ക് ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് അവരുടെ മുഴുവൻ ഉപജീവനവും അപകടത്തിലാണ് ദാരിദ്ര്യ വീക്ഷണം വരുമാന വീക്ഷണം സാമ്പത്തിക വീക്ഷണം എന്നിവയിൽ എല്ലാം എല്ലാ കുടുംബങ്ങളും അപകടത്തിലാണ് അതിനാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി കാരണം അവർ എല്ലാ ദിവസവും പ്രതിസന്ധിയിലാകുമ്പോൾ മറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് അതിനാൽ ഇത് ഒരുതരം ബാക്ക്ഗ്രൌണ്ട് റിസ്ക് ആണ് കൂടാതെ ആളുകൾ തിരിച്ചറിഞ്ഞ മറ്റ് ഘടകങ്ങളുണ്ട് വിദ്യാഭ്യാസമില്ലായ്മ സർക്കാർ ഏജൻസികളിലും എൻജിഒകളിലും അവിശ്വാസം എന്നിവയാണ് ഈ എൻജിഒകളും സർക്കാരിതര സംഘടനകളും സർക്കാർ സ്ഥാപനങ്ങളും 1980 കളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബദൽ കുടിവെള്ള സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സത്യസന്ധരാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഉപരിതലം നിങ്ങളുടെ കുളങ്ങൾ മുതലായവ മലിനമാണ് ദയവായി കുഴൽക്കിണറുകൾ ഉപയോഗിക്കുക ഉപരിതല ജലം ഉപയോഗിക്കരുതെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വളരെയധികം സമയമെടുത്തു ഉപരിതല ജലം ഉപയോഗിക്കുന്നതിന് അവർ കൂടുതൽ കൂടുതൽ സുഖകരവും കൂടുതൽ സൌകര്യപ്രദവുമാണ് ഇത് ഉപരിതല ജലമല്ല കുഴൽക്കിണറുകൾ ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് ധാരാളം നിക്ഷേപ പദ്ധതികൾ ചെലവഴിച്ച് കൂടുതൽ സമയമെടുത്തു ഇപ്പോൾ നിങ്ങൾ വീണ്ടും പറയുന്നു അത് ഉപയോഗിക്കരുത് ഞാൻ എവിടെ പോകണം ഇത് സാമ്പത്തികമായി വളരെ സമ്പന്നമായ ഒരു പ്രദേശമല്ല അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ നിരാശരാണോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചില ആളുകൾ ആ വെല്ലുവിളി സ്വീകരിച്ച് വരുന്നു വളരെ നൂതനമായ ആശയവും വളരെ നൂതനമായ ആശയവും വളരെ ലളിതവുമാണ് അവർ പറഞ്ഞു നമുക്ക് യഥാർത്ഥത്തിൽ ധാരാളം വെള്ളമുണ്ട് സുരക്ഷിതമായ കുടിവെള്ളത്തിനായി ആകാശത്ത് നിരവധി സ്റ്റാമ്പുകൾ ആകാശം നമുക്ക് കുടിവെള്ളം നൽകും വിഷമിക്കേണ്ട അതെ ഈ ടാപ്പ് പോലെ ഈ ടാപ്പ് പോലെ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഗ്യാലൻ കണക്കിന് വെള്ളം ലഭിക്കും ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന് ആരാണ് പറഞ്ഞത് മഴവെള്ളത്തിനായി ഒരു ജാപ്പനീസ് ഓർഗനൈസേഷൻ ഉണ്ട് ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷൻ ആളുകൾ അവർ പറഞ്ഞു ഇതിനെ അമമിസു എന്ന് വിളിക്കുന്നു ജാപ്പനീസ് ഭാഷയിൽ ഒരുതരം മഴവെള്ളം എന്ന് വിളിക്കുന്നു അത് എല്ലാ വീട്ടിലും പുഞ്ചിരി കൊണ്ടുവരും അതിനാൽ നവീകരണത്തിന്റെ വ്യാപനം അനിവാര്യമാണ് ഇത് ഗാർഹിക തലത്തിൽ ഒരു മാതൃകാ ടാങ്കാണ് മഴക്കാലത്ത് നിങ്ങൾ വെള്ളം ശേഖരിക്കണം മേൽക്കൂരയിൽ നിന്ന് വെള്ളം ശേഖരിക്കണം ഇത് ചാനലൈസ് ചെയ്യും ഞങ്ങൾ ഇത് ഇവിടെ സംഭരിക്കും ലളിതമാണ് വളരെ ലളിതവും ഒരു ചെറിയ വലയും പൈപ്പുകളും ഫൂക്കറ്റുകളും ഉണ്ട് അതിനാൽ ഈ ചെറിയ ലളിതമായ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് ആവശ്യമാണ് ഏപ്രിൽ മുതൽ മെയ് വരെ ഇതുപോലെ വളരെ നല്ല മഴ ലഭിക്കുന്ന ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് മഴവെള്ളം ലഭിക്കുന്നു അതിനാൽ ഇത് സെപ്റ്റംബർ വരെ തുടരും ഒക്ടോബർ മുതൽ മാർച്ച് വരെ 6 മാസം നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് അതിനാൽ ഈ സമയത്ത് ഈ സമയത്ത് നിങ്ങൾ വെള്ളം സംരക്ഷിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഈ 6 മാസത്തേക്ക് തുടരാം ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മഴവെള്ളം ഉണ്ടാകും അതിനാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അതിനാൽ അവയ്ക്ക് ശരാശരി 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ മാസങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു അങ്ങനെ ചിലർ പറഞ്ഞു വന്നത് ശരിയാണ് നമുക്കത് ചെയ്യാം ഏകദേശം 5000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ 4ഉം 5ഉം അംഗങ്ങളുള്ള കുടുംബത്തിന് ഈ സംരക്ഷിച്ച വെള്ളം ഉപയോഗിച്ച് 6 മാസം എളുപ്പത്തിൽ കുടിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഗാർഹിക തലത്തിലുള്ള ഒരു ചെറിയ ടാങ്കാണ് അദ്ദേഹം ഒരു എൻജിഒക്കാരനാണ് അവരാണ് ഉപയോക്താക്കൾ അതിനാൽ വളരെ ചെലവുകുറഞ്ഞ കുറച്ച് ചിലവ് കുറഞ്ഞ ഈ ടാങ്ക് സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ ബംഗ്ലാദേശിലെ കുടിവെള്ള അപകടസാധ്യത പരിഹരിക്കുക എന്നതാണ് വെല്ലുവിളി നിങ്ങൾ പലതും പലതും പലതും പലതും സ്ഥാപിക്കേണ്ടതുണ്ട് ഇതാണ് ഞങ്ങളുടെ വെല്ലുവിളി അതിനാൽ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എങ്ങനെ ഈ മഴവെള്ള സംഭരണം പ്രോത്സാഹിപ്പിക്കാം ശരിയാണ് അതിനാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നത് ഞങ്ങളുടെ വെല്ലുവിളിയാണ് അതിനാൽ ഒരു പ്ലാനർ എന്ന നിലയിൽ ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് ശരിയാണ് ബംഗ്ലാദേശിലെ കുടിവെള്ള അപകടസാധ്യത കുറയ്ക്കുന്നതിന് കുടിവെള്ള അപകടസാധ്യത തടയാൻ നിങ്ങൾ ഈ ടാങ്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്താണ് പരിഹാരമെന്ന് ഞങ്ങളോട് പറയുക ആളുകൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ആളുകൾക്ക് ശീല പ്രശ്നമുണ്ട് ആളുകൾക്ക് റിസ്ക് അജ്ഞതയുടെ പ്രശ്നം ഉണ്ട് അതിനാൽ അവർ അത് പരിഗണിക്കുന്നില്ല നിരവധി പ്രശ്നങ്ങൾ ഒന്ന് സാമൂഹിക സാമ്പത്തിക പ്രശ്നം മറ്റൊന്ന് വിദ്യാഭ്യാസ പ്രശ്നം അങ്ങനെ ഇത്രയും സങ്കീർണമായ സാഹചര്യങ്ങളിൽ സർക്കാർ നിങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് എന്ത് പരിഹാരം നൽകാനാകുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതിനാൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത് വിവരങ്ങളുടെ പങ്ക് എന്താണ് ഞങ്ങൾ അവർക്ക് എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് നൽകേണ്ടത് ഞങ്ങൾ അവർക്ക് എങ്ങനെ നൽകണം അങ്ങനെ അവർ പ്രചോദിതരാകും ഈ ടാങ്കുകൾ സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അതിനാൽ ഇതാണ് ഏറ്റവും അനുയോജ്യം ചെറിയ ചെറിയ പിന്തുണ ഞങ്ങൾക്ക് വളരെ ഭീമാകാരമായ വലിയ പരിശ്രമം ആവശ്യമില്ല എന്നാൽ വളരെ ചെറുതാണ് അതിനാൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത് വിവരങ്ങളുടെ പങ്ക് എന്താണ് ഞങ്ങൾ അവർക്ക് എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് നൽകേണ്ടത് ഞങ്ങൾ അവർക്ക് എങ്ങനെ നൽകണം അങ്ങനെ അവർ പ്രചോദിതരാകും ഈ ടാങ്കുകൾ സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അതിനാൽ ഇതാണ് ഏറ്റവും അനുയോജ്യം ചെറിയ ചെറിയ പിന്തുണ ഞങ്ങൾക്ക് വളരെ ഭീമാകാരമായ വലിയ പരിശ്രമം ആവശ്യമില്ല പകരം വളരെ ചെറുതാണ് വേണ്ടത് നവീകരണത്തിന്റെ വ്യാപനം പോലെ ഈ ചെറിയ ശ്രമത്തിന് വളരെ ഭീമാകാരമായ സ്വാധീനം ചെലുത്താനാകും സുസ്ഥിരമായ കാലാവസ്ഥാ വ്യതിയാന പൊരുത്തപ്പെടുത്തലിനും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിനും ഈ നൂതന സാങ്കേതികവിദ്യ അനിവാര്യമാണ് അതിനാൽ ധാരാളം ചെറിയ വൈദ്യുതി ഒരുമിച്ച് ചേർക്കുന്നത് വലിയ ശക്തിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ചെറിയ ശക്തി വളരെ ഭീമാകാരമായ വലിയ ശക്തിയിൽ അവസാനിക്കുന്നു ഓക്കേ അപ്പോൾ ഞങ്ങളുടെ ഗവേഷണ പ്രശ്നം ഈ ടാങ്ക് സ്ഥാപിക്കാൻ ഞങ്ങൾ ആളുകളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതൊരു ടാങ്കാണെന്ന് സങ്കൽപ്പിക്കുക ഞങ്ങൾ ആളുകളോട് ചോദിക്കുന്നു ഹേയ് ഈ ടാങ്ക് നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കൂ ഓ എന്തുകൊണ്ടാണ് ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലായത് എന്തുകൊണ്ടെന്ന് ഒരു തീരുമാനമെടുക്കുക എളുപ്പമല്ല എന്തെന്നാൽ നേട്ടങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും എനിക്കറിയില്ല ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കണം ഞാൻ നിങ്ങളെ എങ്ങനെ ശരിയായി വിശ്വസിക്കണം അതിനാൽ എനിക്ക് വിവരങ്ങൾ ആവശ്യമാണ് കാരണം ഇത് പുതിയതാണ് മുമ്പ് ആരും ഇത് പരീക്ഷിച്ചിട്ടില്ല ഇതൊരു നൂതന സാങ്കേതികവിദ്യയാണ് അതിനാൽ നവീകരണവും ഒരു തരത്തിൽ വളരെ അപകടകരമാണ് കാരണം ഇത് പുതിയതാണ് മാത്രമല്ല ഇത് പുതിയതായതിനാൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിയില്ല ആളുകൾക്ക് അതിനാൽ ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല അവർ സ്വീകരിക്കാൻ തീരുമാനം എടുക്കണം ഒരു അനിശ്ചിത സാഹചര്യത്തിൽ ഇൻസ്റ്റാളേഷൻ തീരുമാനം എടുക്കണം ശരിയാണ് നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഇതിനകം ഒരു കമ്മ്യൂണിറ്റി നിലവിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഈ റിമോട്ട് വാങ്ങാം എന്നാൽ നിങ്ങളാണെങ്കിൽ ഇത് ലഭ്യമല്ലെങ്കിൽ മുമ്പൊരിക്കലും വന്നിട്ടില്ല ആളുകൾ എങ്ങനെ തീരുമാനമെടുക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ് അപ്പോൾ ആളുകൾക്ക് എന്ത് തരം വിവരമാണ് വേണ്ടത് ശരി ഇത് നല്ലതോ ചീത്തയോ ആണെന്ന് അവർ എങ്ങനെ അറിയും ഇത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഇല്ലയോ അവർക്ക് വിവരങ്ങൾ ആവശ്യമാണ് ശരിയാണ് ഞങ്ങൾ നൽകിയാൽ അവർക്ക് വിവരങ്ങൾ ഇല്ല കാരണം ഇത് പുതിയതാണ് പക്ഷേ അവർക്ക് ഒടുവിൽ അറിയാവുന്ന വിവരങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകിയാൽ അവർ ഈ നൂതന സാങ്കേതികവിദ്യയെ വിലയിരുത്തുകയും വിലയിരുത്തുകയും ചെയ്യും ഇത് നൂതനമായി തുടരും പക്ഷേ ഇത് പുതിയതായിരിക്കില്ല കാരണം അവർക്ക് കുറച്ച് ഫീഡ്ബാക്ക് ഉണ്ടാകും അതിനാൽ ഇപ്പോൾ ആളുകൾക്ക് അവരുടെ അനിശ്ചിതത്വം കുറയ്ക്കുന്നതിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അനിശ്ചിതത്വം ആരും ഇഷ്ടപ്പെടുന്നില്ല ഏതൊരു തരത്തിലുള്ള അപകടസാധ്യതയും പോലെ എല്ലാവരും അവരുടെ ഭാവി പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു അപകടസാധ്യത എല്ലായ്പ്പോഴും ഭാവിയാണ് അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം ഭാവിയിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും അപകടസാധ്യത നേരിടുന്നു ഭാവിയിലെ അപകടസാധ്യതകൾ വർത്തമാനത്തിലോ ഭൂതകാലത്തിലോ ഉണ്ടാകാൻ കഴിയില്ല അല്ലെങ്കിൽ ഭൂതകാലം എല്ലായ്പ്പോഴും ഭയം പോലെയാണ് അതിനാൽ അനിശ്ചിതത്വം പോലെ അത് എല്ലായ്പ്പോഴും ഭാവിയിലാണ് അതിനാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനിശ്ചിതാവസ്ഥ ആരും ഇഷ്ടപ്പെടുന്നില്ല അനിശ്ചിതത്വം കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ആളുകൾ വിവരങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിക്ക് ഈ ടാങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കാനാകും അവന് അത് ശേഖരിക്കാൻ കഴിയും ഒരാൾ കേൾവിയിലൂടെയാണ് മറ്റൊരാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധിക്കുന്നതിൽ നിന്നോ കേൾക്കുന്നതിൽ നിന്നോ ശേഖരിക്കാനാകും മറ്റൊന്ന് ഈ ടാങ്ക് നിരീക്ഷിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നതിൽ നിന്നാണ് എവിടെയോ എവിടെയോ സുഹൃത്തിന്റെ സ്ഥലം ചന്ത മാർക്കറ്റ് അജ്ഞാതന്റെ വീട് അങ്ങനെ ഈ ടാങ്കിന്റെ പ്രവർത്തനം എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തെല്ലാം പ്രയോജനങ്ങൾ ഫലപ്രാപ്തി എന്നിങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ അറിവ് അവർ അത് കേൾക്കുന്നു അതിനാൽ അവന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ അയാൾക്ക് അറിയാത്ത ആരെങ്കിലും അയൽക്കാർ അല്ലെങ്കിൽ റേഡിയോ ടെലിവിഷൻ എന്നിവയിൽ നിന്ന് എന്തെങ്കിലും അത് ഹ്യൂമൻ നെറ്റ്വർക്കുകളാകാം അത് സോഷ്യൽ നെറ്റ്വർക്കുകൾ ആകാം ഒരു മാധ്യമമാകാം അതിനാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ടാങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കേൾവിയിലൂടെ ശേഖരിക്കാൻ കഴിയും ഹാർഡ്വെയർ ഭാഗത്തെ കുറിച്ചല്ല സോഫ്റ്റ്വെയർ ഭാഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമേ കേൾവി നിങ്ങളെ അനുവദിക്കൂ ഹാർഡ്വെയർ ഭാഗത്തിന് നിങ്ങൾ ഇത് കാണേണ്ടതുണ്ട് ആകൃതി വലുപ്പം ഘടന എന്താണ് ഇത് മനോഹരമാണോ അല്ലയോ ഇത് വലുതോ ചെറുതോ ശരിയോ വൃത്തമോ ചതുരമോ ഇങ്ങനെ എന്താണെങ്കിലും ഇവയും വളരെ അത്യാവശ്യമാണ് എനിക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് എന്റെ വീട്ടിൽ വെച്ചാൽ അത് വൃത്തികെട്ടതായി തോന്നുന്നതിനാലോ ഈ ഹാർഡ്വെയർ ഘടകങ്ങൾ നിങ്ങൾക്ക് നിരീക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കൂ അപ്പോൾ അത് എന്റെ അറിവ് പൂർത്തിയാക്കും എന്നാൽ ഇത് റോജേഴ്സ് വികസിപ്പിച്ച നവീകരണങ്ങളുടെ വ്യാപനത്തിന്റെ ഒരു മാതൃകയാണ് അറിവ് മാർഗങ്ങൾ കേൾവിയിലൂടെയും നിരീക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അറിവ് പ്രധാനമാണെന്ന് അവർ പറയുന്നു എന്നാൽ അറിവ് ഉടനടി പൊരുത്തപ്പെടുത്തലിലേക്ക് നയിക്കില്ല ഇതിന് സമയമെടുക്കും സ്വീകരിക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഡിസിഷൻ പെർസ്യൂയേഷന്സും ഡിസിഷൻ ക്വസ്റ്റ്യനും ആവശ്യമാണ് അതിനാൽ പെർസ്യൂയേഷൻ സ്റ്റേജും ഡിസിഷൻ സ്റ്റേജും അർത്ഥമാക്കുന്നത് ഒരു സബ്ജെക്റ്റീവ് വീക്ഷണകോണിൽ നിന്ന് അതിന്റെ പ്രയോജനം എന്താണ് എനിക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് എന്റെ അവസ്ഥയിൽ അതിന്റെ സബ്ജെക്റ്റീവ് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുമോ ഇല്ലയോ ഇത്തരത്തിലുള്ള സന്ദർഭം എനിക്ക് മനസ്സിലായി അതിനെ നമ്മൾ ചർച്ചകൾ എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് നമുക്ക് 3 തരം വിവരങ്ങൾ ആവശ്യമാണ് ഹിയറിങ് ഒബ്സെർവഷൻസ് ഡിസ്കഷന്സ് ഓക്കേ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അനിശ്ചിതത്വ തീരുമാനങ്ങൾ കുറക്കുന്നതിനും ഈ 3 വിവരങ്ങൾ എന്നെ സഹായിക്കും അതിനടുത്തുള്ള എന്റെ മറ്റ് 2 പ്രഭാഷണങ്ങളിൽ ബംഗ്ലാദേശിനായുള്ള ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും ആളുകൾ ഈ വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കുന്നു അവർ ഏതുതരം നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നു ആരാണ് വലിയ പങ്ക് വഹിക്കുന്നത് എന്നിങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഫലങ്ങൾ